വീണ്ടും സ്വാഗതം ഒരു സംയുക്ത സൈക്കിൾ പവർ പ്ലാന്റിനായി ഞങ്ങൾ ഒരു പ്രശ്നം പരിഹരിക്കുകയായിരുന്നുവെന്ന് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഞങ്ങൾ പകുതി ചെയ്തു കഴിഞ്ഞിരുന്നു ഒരു സംയുക്ത സൈക്കിൾ പവർ പ്ലാന്റ് ഞങ്ങൾ ഗ്യാസ് ടർബൈൻ സ്റ്റീം പവർ പ്ലാന്റ് എന്നിവയുടെ സംയോജനം എടുത്തിട്ടുണ്ട് ഗ്യാസ് ടർബൈൻ പവർ പ്ലാന്റിനുള്ള പ്രോപ്പർട്ടി മൂല്യങ്ങൾ മാത്രമേ ഞങ്ങൾ പരിഹരിച്ചിട്ടുള്ളൂ ബാക്കി നമ്മൾ ചെയ്യണം അതിനാൽ നമുക്ക് തുടരാം അതിനാൽ എനിക്ക് പിപിടിയിൽ നിങ്ങളുടെ ശ്രദ്ധ ആവശ്യമാണ് കൂടാതെ 1 2 3 4 5 6 എന്നിവ ഗ്യാസ് ടർബൈൻ സൈക്കിളിലെ പോയിന്റുകളെ പ്രതിനിധീകരിക്കുന്നുവെന്ന് നിങ്ങളുടെ മുമ്പത്തെ ക്ലാസിൽ നിന്ന് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ സൈക്കിളിലേക്ക് മടങ്ങട്ടെ അതിനാൽ നിങ്ങൾ 1 2 3 4 5 6 എന്നിവ കാണുന്നു ഗ്യാസ് ടർബൈൻ സൈക്കിളിലെ പോയിന്റുകൾ ഇവയാണ് ഞങ്ങൾ ഇവ കണക്കാക്കേണ്ടതുണ്ട് പ്രോപ്പർട്ടി മൂല്യങ്ങൾ പ്രത്യേകിച്ച് ഈ പോയിന്റുകളിലെ എൻതാൽപ്പി സാധാരണ നടപടിക്രമം പിന്തുടരുന്നു ഞങ്ങൾ ഇത് കൊണ്ടുവന്നു പിന്നെ ഗ്യാസ് ടർബൈൻ സൈക്കിളിൽ മറ്റൊരു പോയിന്റുണ്ട് അത് പ്രധാനമാണ് കാരണം 6 ടർബൈനിന്റെ എക്സിറ്റ് സൂചിപ്പിക്കുന്നു അതിനാൽ ടർബൈൻ പുറത്തുകടക്കുമ്പോൾ വായുവിന്റെ അവസ്ഥ നമുക്കറിയാം അതായത് എൻതാൽപ്പി 45 8 kJkg ആണ് എന്നാൽ അതിനുശേഷം സൈക്കിൾ പവർ പ്ലാന്റ് സംയോജിപ്പിക്കാൻ സവിശേഷമായ മറ്റൊരു പ്രധാന ഘടകത്തിലേക്ക് അത് പ്രവേശിക്കുന്നു ഇത് അടിസ്ഥാനപരമായി ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറാണ് ഇത് വളരെ വിപുലമായി ഹീറ്റ് റിക്കവറി സ്റ്റീം ജനറേറ്റർ എന്നറിയപ്പെടുന്നു പിന്നീട് കുറച്ച് സമയം ചെലവഴിക്കും അതിനാൽ അത് ആ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ പ്രവേശിക്കുകയും തുടർന്ന് താഴത്തെ സൈക്കിളുമായി ചൂട് കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്നു അതിനാൽ ആ നീരാവി ഉത്പാദിപ്പിക്കാൻ കഴിയും അതിനാൽ ഞാൻ ഈ ചൂട് എക്സ്ചേഞ്ചറിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതിനാൽ 0 6 ന് ശേഷം അത് ആ ചൂട് എക്സ്ചേഞ്ചറിലേക്ക് പോകുന്നു വാതക പ്രവാഹവും തുടർന്ന് വാതക സ്ട്രീം 0 7 ആയി തണുപ്പിക്കപ്പെടും അതിനാൽ പ്രോപ്പർട്ടി പ്രത്യേകിച്ച് എന്താൽപ്പി അറിയാനും നമുക്ക് തിരികെ പോകാനും കുറഞ്ഞത് 0 7 വരെ കണക്കുകൂട്ടൽ നടത്തണം അതിനാൽ P6 P7 എന്നിവയിൽ അവ എയർ സ്റ്റാൻഡേർഡ് സൈക്കിളിൽ സമാനമാണ് ഈ ഐസോബാറിക് ഹീറ്റ് റിജക്ഷനിൽ മർദ്ദം നഷ്ടപ്പെടില്ലെന്ന് ഞങ്ങൾ അനുമാനിക്കുകയും T7 നൽകുകയും ചെയ്യുന്നു അതിനാൽ അവിടെ നിന്ന് നമുക്ക് എൻതാൽപ്പി നിർണ്ണയിക്കാൻ കഴിയും അതിനാൽ വാതകം പ്രവേശിക്കുന്ന എൻതാൽപ്പി എന്താണെന്ന് നമുക്കറിയാം വാതകം പുറപ്പെടുന്ന എൻതാൽപ്പിയും നമുക്കറിയാം അതിനാൽ ഇത് വളരെ പ്രധാനപ്പെട്ട വിവരമാണ് പിന്നെ നമുക്ക് നിങ്ങളുടെ സ്റ്റീം സൈക്കിളിലേക്ക് പോകാം സ്റ്റേറ്റ് 8 എന്താണ് സ്റ്റേറ്റ് 8 നമുക്ക് അല്പം പിന്നോട്ട് പോകാം അതിനാൽ ആവി ടർബൈനിലേക്ക് പ്രവേശിക്കുന്ന പോയിന്റാണ് സ്റ്റേറ്റ് 8 ഈ ഘട്ടത്തിൽ നീരാവി അവസ്ഥ സൂപ്പർഹീറ്റാണ് അതിനാൽ എൻതാൽപ്പി കണക്കാക്കാൻ മർദ്ദവും താപനിലയും അറിഞ്ഞിരിക്കണം അതിനാൽ P8 T8 എന്നിവ അതേ കാര്യം തന്നെ ചെയ്തു ഈ സ്റ്റീം ടേബിളിൽ നിന്ന് നമുക്ക് അറിയാവുന്ന എൻതാൽപ്പിയാണ് ഇത് അപ്പോൾ ഈ നീരാവിക്ക് സമാന്തരമായി വികസിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ നമുക്ക് കണ്ടൻസർ മർദ്ദം P9 ൽ ഉള്ള 0 9 ലഭിക്കുകയും ഐസെൻട്രോപിക് വികാസംഅനുമാനിക്കുകയും ചെയ്താൽ നമുക്ക് s9 s8 ലഭിക്കും അതിനാൽ ഈ വിവരങ്ങളെല്ലാം ഉപയോഗിച്ച് നമ്മൾ നേരത്തെ ഉപയോഗിച്ചതുപോലെ 0 9 ലെ എൻതാൽപ്പി കണക്കാക്കാം പക്ഷേ ഇത് വികാസത്തിന് ശേഷമുള്ള വാതകത്തിന്റെ യഥാർത്ഥ അവസ്ഥയുടെ യഥാർത്ഥ എൻതാൽപ്പി അല്ല അതിനാൽ വാതകം ഒരു ഐസെൻട്രോപിക് രീതിയിലല്ല വികസിച്ചിരിക്കുന്നത് ടർബൈനിന്റെ ഐസെൻട്രോപിക് കാര്യക്ഷമതയായ ഈ അളവ് ηT ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നതിന് മാറ്റാനാവില്ല ഞങ്ങൾ നേരത്തെ ചെയ്ത നടപടിക്രമം പിന്തുടരുക ടർബൈനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഘട്ടത്തിൽ നമുക്ക് വാതകത്തിന്റെ അല്ലെങ്കിൽ ഈ നീരാവിയുടെ എൻതാൽപ്പി കണക്കാക്കാം അതിനാൽ ഈ പോയിന്റ് നമുക്ക് 2162 0 kJkg ലഭിക്കും അതാണ് ഈ നീരാവിയുടെ എൻതാൽപ്പി കണ്ടൻസറിലൂടെ കടന്നുപോകുമ്പോൾ അത് പൂർണ്ണമായും ഘനീഭവിക്കുന്നു അതായത് അത് പൂരിത ദ്രാവകമായി പുറത്തുവരുന്നു അത് കണ്ടൻസർ മർദ്ദം അറിയുന്നതിലൂടെ നമുക്ക് കണ്ടൻസർ നിരസിച്ച താപ കൈമാറ്റം അല്ലെങ്കിൽ താപം എന്താണെന്ന് കണക്കാക്കാം പമ്പിലെ ഐസെൻട്രോപിക് പ്രഷറൈസ് പമ്പിലെ ഐസെൻട്രോപിക് കംപ്രഷൻ പരിഗണിച്ച് പമ്പ് ഉണ്ട് ഇതാണ് ഐസെൻട്രോപിക് പ്രഷറൈസിന്റെ അവസാനത്തിലുള്ള 0 12 എന്ന എൻതാൽപ്പി മൂല്യം എന്നാൽ അങ്ങനെയല്ല പമ്പിന്റെ ഐസെൻട്രോപിക് എഫിഷ്യൻസി നമുക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് ശ്രദ്ധിക്കാൻ ഒരു നിശ്ചിത അളവിലുള്ള അപ്രസക്തത ഉണ്ടാകും തുടർന്ന് പമ്പിന്റെ എക്സിറ്റ് ആയ 0 13 ൽ നമുക്ക് കണക്കാക്കാം എന്താണ് എൻതാൽപ്പി അതിനാൽ ഗ്യാസ് ടർബൈൻ സൈക്കിളിലെ എല്ലാ പ്രധാന പോയിന്റുകളിലെയും എന്താൽപ്പി മൂല്യങ്ങളും ടർബൈൻ സൈക്കിളിലെയും ഇത് അറിയപ്പെടുന്നു അതിനാൽ ഇപ്പോൾ നമുക്ക് മറ്റൊരു സൈക്കിൾ കണക്കുകൂട്ടൽ നടത്തുകയും കാര്യക്ഷമത കണ്ടെത്തുകയും ചെയ്യാം അതിനാൽ ആദ്യം ഗ്യാസ് ടർബൈൻ സൈക്കിളിനും സ്റ്റീം ടർബൈൻ സൈക്കിളിനും ഇടയിലുള്ള ഹീറ്റ് എക്സ്ചേഞ്ചർ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇത് എച്ച്ആർഎസ്ജി ഹീറ്റ് റിക്കവറി സ്റ്റീം ജനറേറ്റർ എന്നും അറിയപ്പെടുന്നു അതിനായി ഞങ്ങൾ ഒരു എനർജി ബാലൻസ് ചെയ്യും HRSG ൽ നിന്നുള്ള നഷ്ടം അവഗണിക്കുന്നത് അത് തികച്ചും ഇൻസുലേറ്റ് ചെയ്തതാണെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു അതിനാൽ അവിടെ എന്ത് താപ വിനിമയം ഉണ്ടായാലും ചൂടുള്ള വാതകത്തിനും ഇൻകമിംഗ് വെള്ളത്തിനും ഇടയിൽ താപ വിനിമയം ഉണ്ടാകും അതിനുശേഷം അത് രൂപം കൊള്ളും അതിനാൽ അന്തരീക്ഷ അന്തരീക്ഷത്തിലേക്ക് താപ വിനിമയം ഇല്ല അതിനാൽ ഒരു ലളിതമായ താപ ബാലൻസും ഊർജ്ജ സന്തുലനവും നമുക്ക് ഇത് നൽകും നമുക്ക് m 1 ലഭിക്കും അത് മറ്റൊന്നല്ല പക്ഷേ വായുവിന്റെ പിണ്ഡത്തിന്റെ ഒഴുക്ക് നിരക്ക് ṁ 3 അതായത് പിണ്ഡം ṁ 8 അതായത് നീരാവി അല്ലെങ്കിൽ ജലത്തിന്റെ പിണ്ഡത്തിന്റെ ഒഴുക്ക് നിരക്ക് അതിനാൽ അതിനിടയിൽ ഞങ്ങൾക്ക് ഒരുതരം ബന്ധം ലഭിക്കും അതായത് ഒരു മാസ് ഫ്ലോ റേറ്റ് മറ്റ് മാസ് ഫ്ലോ റേറ്റ് അനുസരിച്ച് നമുക്ക് ലഭിക്കും ഇത് കിട്ടിയാൽ നെറ്റ് പവർ ഔട്ട്പുട്ട് എഴുതാം നെറ്റ് പവർ ഔട്ട്പുട്ട് 4 ഘടകങ്ങളിൽ നിന്ന് വരും 2 ടർബൈനുകൾ വികസിപ്പിക്കുന്ന ശക്തികളും ദ്രാവകം കംപ്രസ്സുചെയ്യുന്നതിനുള്ള 2 ഉപകരണങ്ങളും ഒന്ന് കംപ്രസ്സറും മറ്റൊന്ന് അവ പവർ ആഗിരണം ചെയ്യുന്ന പമ്പുമാണ് അതിനാൽ 2 ടർബൈനുകൾ ചെയ്യുന്ന ജോലി കൂട്ടിച്ചേർക്കുകയും അവിടെ നിന്ന് പമ്പ് ആഗിരണം ചെയ്യുന്ന ജോലിയും കംപ്രഷൻ കുറയ്ക്കുകയും ചെയ്യുന്നു അതോടൊപ്പം ṁ 1 അതായത് m ന്റെ മാസ് ഫ്ലോ റേറ്റ് അനുസരിച്ച് നമുക്ക് ജോലി പൂർത്തിയാക്കാനാകും ഇപ്പോൾ നെറ്റ് ഔട്ട്പുട്ട് 500 മെഗാവാട്ട് ആയി നൽകിയിട്ടുണ്ട് തുടർന്ന് നമുക്ക് ലഭിക്കുന്ന ഈ വിവരങ്ങൾ ചേർത്താൽ വായുവിന്റെ മാസ് ഫ്ലോ റേറ്റ് എത്രയാണ് അതിനാൽ 2 ദ്രാവകങ്ങളുടെ മാസ് ഫ്ലോ റേറ്റുകളുടെ അനുപാതം നമുക്ക് ലഭിച്ചു ഈ സംയോജിത ചക്രത്തിന് 500 മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ വായുവിന്റെ മാസ് ഫ്ലോ റേറ്റ് എത്രയാണെന്ന് ഞങ്ങൾക്ക് ലഭിച്ചു എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നമുക്ക് താപ ദക്ഷത നേടാം അതിനാൽ എയർ മാസ് ഫ്ലോ റേറ്റ് അറിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഓരോ യൂണിറ്റിനും അറിയാം ഞാൻ ഉദ്ദേശിക്കുന്നത് വായുവിന്റെ ഓരോ യൂണിറ്റ് മാസ് ഫ്ലോ റേറ്റ് ജ്വലന അറയിലെ എൻതാൽപ്പി കൂട്ടിച്ചേർക്കലിനെക്കുറിച്ച് ക്ഷമിക്കണം അതിനാൽ ആകെ എന്താണെന്ന് ഇപ്പോൾ നമുക്കറിയാം 942 39 മെഗാവാട്ട് ജ്വലന അറയിൽ കോമയിൽ വിതരണം ചെയ്യുന്ന താപ ഊർജ്ജത്തിന്റെ അളവ് 500 മെഗാവാട്ട് ജോലി എന്താണെന്ന് നമുക്കറിയാം ഇത് ഉപയോഗിച്ച് സംയുക്ത സൈക്കിളിന്റെ കാര്യക്ഷമത അതായത് 53 1 ലഭിക്കും അതിനാൽ ഇത് പ്രവർത്തിക്കുന്ന ഒരു പവർ പ്ലാന്റിന്റെ കാര്യക്ഷമതയിൽ ഗണ്യമായ വർദ്ധനവാണ് ഇത് അടിസ്ഥാനപരമായി താപ ഊർജ്ജത്തെ മെക്കാനിക്കൽ ജോലികളാക്കി മാറ്റുന്നതിനുള്ള ഉപകരണമാണ് ഈ കാര്യക്ഷമത വളരെ കൂടുതലാണ് വ്യക്തിഗത സൈക്കിളുകളുടെ കാര്യക്ഷമതയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് കണക്കുകൂട്ടൽ കൂടുതൽ ചെയ്യാൻ കഴിയും അതിനാൽ സംയോജിത സൈക്കിൾ പവർ പ്ലാന്റ് നമുക്ക് ലഭിക്കുന്ന നേട്ടമാണ് ഇത് കാണിക്കുന്നത് അതിനാൽ പുതിയ വൈദ്യുത നിലയത്തെ സംയോജിത സൈക്കിൾ പവർ പ്ലാന്റാക്കി മാറ്റാനുള്ള ഒരു പൊതു പ്രവണത നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് വ്യക്തമായും അതോടൊപ്പം പരിസ്ഥിതിയുടെ സ്വാധീനം കുറവായിരിക്കും ഹീറ്റ് റിക്കവറി സ്റ്റീം ജനറേറ്റർഎന്ന് വിളിക്കപ്പെടുന്ന ഗ്യാസ് ടർബൈനുകളുടെ സ്റ്റീം പവർ പ്ലാന്റ് കോമ്പിനേഷന്റെ ഭാഗവും പാർസലും ആയ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപകരണത്തിലേക്ക് ഞാൻ ഇതോടൊപ്പം പോകുന്നു ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാൻ അത് സൂചിപ്പിച്ചു പക്ഷേ നമുക്ക് പഠിക്കാം കാരണം ഇത് ഒരുതരം പാഴ് ചൂടാണ് ഈ കോഴ്സിന് വളരെ പ്രസക്തമായ വീണ്ടെടുക്കൽ ഉപകരണം അതിനാൽ ഇതിനായി കുറച്ച് സമയം ചെലവഴിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ ചൂട് വീണ്ടെടുക്കൽ നീരാവി ജനറേറ്റർ ടോപ്പിംഗ് ഗ്യാസ് ടർബൈൻ സൈക്കിൾ ഹീറ്റ് റിക്കവറി സ്റ്റീം ജനറേറ്റർ വഴി അടിവയറ്റിലെ സ്റ്റീം പവർ പ്ലാന്റുമായി പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് സാധാരണയായി HRSG എന്നറിയപ്പെടുന്നു നമുക്ക് ഈ ഡയഗ്രാമിലേക്ക് വരാം അതിനാൽ ഈ ഡയഗ്രം ഉപയോഗിച്ച് എനിക്ക് HRSG എന്താണെന്ന് വിശദീകരിക്കാൻ കഴിയും അതിനാൽ എക്സ്ഹോസ്റ്റ് ഗ്യാസിനും നീരാവിക്കുമിടയിൽ താപ ഊർജ്ജം കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറാണിത് അല്ലെങ്കിൽ വെള്ളവും പിന്നീട് നീരാവിയും അതിനാൽ ഈ ഹീറ്റ് എക്സ്ചേഞ്ചറിനെ സംയോജിത ചക്രത്തിന്റെ കാര്യത്തിൽ HRSG എന്ന് വിളിക്കുന്നു ഇത് സംഭവിക്കുന്ന പ്രക്രിയയാണെന്ന് ഇവിടെ നിങ്ങൾ കാണുന്നു 2 സ്ട്രീമുകൾ ഉണ്ട് അതിനാൽ ഇത് ഒരു എച്ച്ആർഎസ്ജിയിൽ നടക്കുന്ന പ്രക്രിയയാണ് ഇപ്പോൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ HRSG അതിനാൽ ഇത് നീരാവി ഉൽപ്പാദിപ്പിക്കുന്ന ഒരുതരം ഉപകരണമാണ് പക്ഷേ പ്രാഥമികമായി ചില സന്ദർഭങ്ങളിൽ ജ്വലനം ഉണ്ടാകില്ല കുറച്ച് അധിക ഇന്ധനം കത്തിച്ചേക്കാം പക്ഷേ പ്രാഥമികമായി ജ്വലനമില്ല അതിനാൽ ഇതിനകം മറ്റെവിടെയെങ്കിലും ജ്വലനം നടന്നിട്ടുണ്ട് ചൂടുള്ള വാതകം ഒരു സൈക്കിളിൽ ഒരു നിശ്ചിത അളവിലുള്ള ജോലി ചെയ്തിട്ടുണ്ടാകാം തുടർന്ന് ആ എക്സ്ഹോസ്റ്റ് വാതകം വരുന്നു ഇത് ഉപയോഗിച്ച് നമ്മൾ നീരാവി ഉത്പാദിപ്പിക്കുന്നു അതിനാൽ ഇത് HRSG അല്ലെങ്കിൽ ചൂട് വീണ്ടെടുക്കൽ സ്റ്റീം ജനറേറ്ററിന്റെ ഉദ്ദേശ്യമാണ് ഗ്യാസ് ടർബൈനും സ്റ്റീം ടർബൈനും സംയോജിപ്പിച്ചിരിക്കുന്ന സംയോജിത സൈക്കിൾ പവർ പ്ലാന്റുമായി ബന്ധപ്പെട്ടതാകാം ഇത് നമുക്ക് ചൂടുള്ള വാതകത്തിന്റെ ഉറവിടം ജ്വലനത്തിന്റെ ചൂടുള്ള ഉൽപ്പന്നം ജ്വലനത്തിന്റെ ചൂടുള്ള ഉൽപ്പന്നം എന്നിവ നീരാവി ഉൽപാദനത്തിനായി ഉപയോഗിക്കുന്നത് ഇവിടെയായിരിക്കാം അതിനാൽ അത് അത്തരത്തിലുള്ള ആപ്ലിക്കേഷനിലും ആകാം അതായത് അത് ഹീറ്റ് റിക്കവറി സ്റ്റീം ജനറേറ്റർ ആയിരിക്കണമെന്നില്ല അല്ലെങ്കിൽ ടർബൈൻ പവർ പ്ലാന്റ് കോമ്പിനേഷനിലുള്ള ഗ്യാസ് ടർബൈനുകളിൽ മാത്രമായിരിക്കണമെന്നില്ല ഒരു ചൂളയിൽ നിന്നോ ഇൻസിനറേറ്ററിൽ നിന്നോ നമുക്ക് ചൂളയുടെ ഔട്ട്ലെറ്റിൽ വളരെ ഉയർന്ന താപനിലയുള്ള വാതകമുണ്ടെന്ന് പറയാം അത് മറ്റ് വഴികളിൽ പാഴാക്കാമായിരുന്നു അത് സാധാരണ പ്രക്രിയയിൽ പാഴാക്കാമായിരുന്നു പക്ഷേ ഞങ്ങൾ അത് നീരാവി ഉത്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്നു അപ്പോൾ ഇതിനെ ചൂട് വീണ്ടെടുക്കൽ സ്റ്റീം ജനറേറ്റർ എന്ന് വിളിക്കും ഹീറ്റ് റിക്കവറി സ്റ്റീം ജനറേറ്ററും വേസ്റ്റ് ഹീറ്റ് ബോയിലറും തമ്മിൽ സൂക്ഷ്മമായ വ്യത്യാസമുണ്ട് ഹീറ്റ് റിക്കവറി സ്റ്റീം ജനറേറ്റർ പൊതുവെ വൈദ്യുതി ഉൽപ്പാദനത്തിനായി ഉപയോഗിക്കുന്നതിന് നമുക്ക് നീരാവി ലഭിക്കുന്ന യൂണിറ്റുകളാണ് എന്നാൽ മിക്ക കേസുകളിലും വേസ്റ്റ് ഹീറ്റ് റിക്കവറി ബോയിലർ താഴ്ന്ന മർദ്ദത്തിൽ നീരാവി ഉത്പാദിപ്പിക്കുന്നു അത് ചൂടാക്കാനോ പ്രോസസ്സ് ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കുന്നു അതിനാൽ ഹീറ്റ് റിക്കവറി സ്റ്റീം ജനറേറ്റർ ഞങ്ങൾ ഈ പ്രത്യേക പദാവലി ഉപയോഗിക്കുമ്പോഴെല്ലാം ജോലിയുടെയോ വൈദ്യുതിയുടെയോ ഉൽപാദനത്തിനായി ആവി ലഭിക്കുന്ന ഒരു ഘടകത്തെ ഞങ്ങൾ പരാമർശിക്കുന്നു അതിനാൽ നമുക്ക് ചൂട് വീണ്ടെടുക്കൽ സ്റ്റീം ജനറേറ്ററിലേക്ക് മടങ്ങാം ഞാൻ അതിൽ വിവരിച്ചിട്ടുണ്ട് ഗ്യാസ് ടർബൈൻ സ്റ്റീം ടർബൈൻ പ്ലാന്റുമായുള്ള ബന്ധം എന്നാൽ ഇത് കൂടുതൽ പൊതുവായതായിരിക്കാം ടോപ്പിംഗ് ഗ്യാസ് ടർബൈൻ സൈക്കിൾ ഹീറ്റ് റിക്കവറി സ്റ്റീം ജനറേറ്റർ വഴി അടിത്തട്ടിലുള്ള സ്റ്റീം പവർ പ്ലാന്റുമായി പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഹീറ്റ് റിക്കവറി സ്റ്റീം ജനറേറ്റർ ഈ സംയോജിത സൈക്കിൾ പവർ പ്ലാന്റിന്റെ അദ്വിതീയവും പ്രധാനപ്പെട്ടതുമായ ഭാഗമാണ് കാരണം ഇത് ഗ്യാസ് ടർബൈൻ പവർ പ്ലാന്റിലോ സ്റ്റീം പവർ പ്ലാന്റിലോ സംയോജിപ്പിക്കുമ്പോൾ ഉണ്ടാകില്ല അപ്പോൾ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഘടകം ആവശ്യമുള്ളൂ നമ്മുടെ ചൂട് വീണ്ടെടുക്കൽ സ്റ്റീം ജനറേറ്ററിന്റെ സഹായത്തോടെ ഊർജ്ജ കാസ്കേഡിംഗ് നടത്താൻ കഴിയുന്നതിനാൽ ഇത് വളരെ പ്രധാനമാണ് ചൂട് വീണ്ടെടുക്കൽ സ്റ്റീം ജനറേറ്ററിൽ നിരവധി ചൂട് എക്സ്ചേഞ്ചറുകൾ അടങ്ങിയിരിക്കുന്നു അതിനാൽ ഇത് താപ വിനിമയം നടക്കുന്ന ഒരു ഉപകരണമാണ് എന്നാൽ താപ ഊർജത്തിന്റെ കൈമാറ്റം ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ഉപയോഗിച്ച് നടക്കുന്നില്ല ഫീഡ് വാട്ടർ ഹീറ്റ് എക്സ്ചേഞ്ചർ പോലെയുള്ള നിരവധി ഹീറ്റ് എക്സ്ചേഞ്ചറുകൾ ഉണ്ട് ഫീഡ്വാട്ടർ ചൂടാക്കൽ വെള്ളം ബാഷ്പീകരിക്കൽ നീരാവി സൂപ്പർ ഹീറ്റിംഗ് ചില വലിയ എച്ച്ആർഎസ്ജിയിൽ നീരാവി വീണ്ടും ചൂടാക്കാനുള്ള സംവിധാനവും ഉണ്ടായിരിക്കും അതിനാൽ അത്തരം ഹീറ്റ് എക്സ്ചേഞ്ചറുകളും ഓരോ ഹീറ്റ് എക്സ്ചേഞ്ചറുകളും ഈ ഓരോ ഹീറ്റ് എക്സ്ചേഞ്ചറുകളും അദ്വിതീയമാണ് അതിനാൽ അത്തരം ചൂട് എക്സ്ചേഞ്ചറുകൾ പലതും ഉണ്ടാകും കൂടാതെ ഉണ്ടാകാം ഒരു സപ്ലിമെന്ററി ഫയറിംഗ് സിസ്റ്റം കൂടാതെ എമിഷൻ നിയന്ത്രണത്തിന് ഒരു ക്രമീകരണം ഉണ്ടായിരിക്കാം വ്യക്തമായും ചില ലൂവറുകൾ കണക്ട് കണക്ഷൻ ഉണ്ടായിരിക്കാം അത് പൊരുത്തപ്പെടുന്നതിനാൽ ശരിയായ കണക്ഷനുകളും നിയന്ത്രണ സംവിധാനങ്ങളും ഉണ്ടാകാം അതിനാൽ ഇവയെല്ലാം അവിടെയുണ്ട് ഈ അധിക ഫയറിംഗ് ഒരു പ്രധാന സവിശേഷതയാണ് മിക്ക കേസുകളിലും HRSG ന് അധിക ഫയറിംഗ് ഉണ്ടായിരിക്കും ഞങ്ങൾ അവയെക്കുറിച്ച് വിശദീകരിക്കും ഇപ്പോൾ നിങ്ങളുടെ സ്റ്റീം ടർബൈൻ ഗ്യാസ് ടർബൈൻ എന്നിവയുമായി ബന്ധപ്പെട്ട് HRSG വളരെ സാധാരണയായി ഉപയോഗിക്കുന്നു ഗ്യാസ് ടർബൈൻ സ്റ്റീം ടർബൈൻ സ്റ്റീം പവർ പ്ലാന്റ് സംയുക്ത ചക്രം അതിനാൽ HRSG യുടെ നിരവധി വ്യതിയാനങ്ങൾ ഉണ്ട് അതിനാൽ ഈ സ്റ്റീം സൈഡ് ഓപ്പറേറ്റിംഗ് മർദ്ദത്തെ അടിസ്ഥാനമാക്കി ഇതിനെ ഒറ്റ മർദ്ദം ഇരട്ട മർദ്ദം ട്രിപ്പിൾ മർദ്ദംsingle pressure double pressure and triple pressure എന്നിങ്ങനെ വിശേഷിപ്പിക്കാം അതായത് ഒരു എച്ച്ആർഎസ്ജിയിൽ 2 ദ്രാവകങ്ങൾ ഉണ്ട് അതിനാൽ വിവിധ തരം ഉപരിതലങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു വാതകമുണ്ട് താപ ഊർജ്ജത്തിന്റെ കാര്യക്ഷമമായ കൈമാറ്റത്തിന് താപ കൈമാറ്റ പ്രതലങ്ങളുണ്ട് മറുവശത്ത് ഒരു നീരാവി അല്ലെങ്കിൽ നീരാവി ജല മിശ്രിതം ഉണ്ട് ഇപ്പോൾ ഈ നീരാവി നീരാവി ജല മിശ്രിതം വ്യത്യസ്ത സമ്മർദ്ദത്തിലായിരിക്കാം വ്യത്യസ്തമായ സമ്മർദങ്ങൾക്ക് നാം പോകുന്നതിന് കാരണങ്ങളുണ്ട് ഏറ്റവും ലളിതമായ കേസ് ഒറ്റ മർദ്ദം അപ്പോൾ 2 വ്യത്യസ്ത സമ്മർദ്ദങ്ങൾ ഉണ്ടാകാം 3 വ്യത്യസ്ത സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ 3 ൽ കൂടുതൽ ഉണ്ടാകാം ഉപകരണങ്ങളുടെ ലേഔട്ട് അടിസ്ഥാനമാക്കി ശരിയല്ല ചൂട് എക്സ്ചേഞ്ചറുകളുടെ എണ്ണം ഉണ്ടെന്നും ചൂടുള്ള വാതകം അവയിലൂടെ കടന്നുപോകുമെന്നും ഞാൻ പറഞ്ഞു ഇപ്പോൾ അവ തിരശ്ചീനമായോ ലംബമായോ ലംബമായ ദിശയിലോ ക്രമീകരിക്കാം അത് വാതകത്തിന്റെ പാതയായിരിക്കും അതിനാൽ ഉപകരണങ്ങളുടെ തിരശ്ചീന ലേഔട്ട് ഒന്നിനുപുറകെ ഒന്നായി വളരെ സാധാരണമാണ് തരം അടിസ്ഥാനമാക്കി അതിനായി ചില കണക്കുകൾ കാണിക്കാൻ ഞങ്ങൾ ശ്രമിക്കും സ്റ്റീം സൈക്കിളിൽ വീണ്ടും ചൂടാക്കൽ ചക്രം ഉണ്ടാകാം അല്ലെങ്കിൽ വീണ്ടും ചൂടാക്കാത്ത ചക്രം ഉണ്ടാകാം അതിനാൽ എച്ച്ആർഎസ്ജിയിൽ എന്തെങ്കിലും വ്യതിയാനം ഉണ്ടായേക്കാമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം പിന്നീട് ഫ്യൂവൽ അൺഫയർ എക്സ്ഹോസ്റ്റ് ഫയർ സപ്ലിമെന്ററി ഫയർ എന്നിവയെ അടിസ്ഥാനമാക്കി ഞാൻ കുറച്ചു സമയം ഇതിനായി ചിലവഴിക്കട്ടെ ഒരു ഗ്യാസ് ടർബൈൻ ഒരു സ്റ്റീം പവർ പ്ലാന്റ് എന്നിവയുടെ സംയോജനം ഉണ്ടെന്ന് നമുക്ക് പറയാം കാരണം അൺഫയർ നിങ്ങൾക്ക് മനസ്സിലാക്കാം അതിനാൽ ഞങ്ങൾ ഗ്യാസ് ടർബൈനിലെ ജ്വലന അറയിൽ ഇന്ധനം കത്തിക്കുന്നു ചൂടുള്ള വാതകം അല്ലെങ്കിൽ ജ്വലനത്തിന്റെ ചൂടുള്ള ഉൽപ്പന്നം ഗ്യാസ് ടർബൈനിൽ ചില പ്രവർത്തനങ്ങൾ ചെയ്യുന്നു പക്ഷേ ഗ്യാസ് ടർബൈനിൽ നിന്ന് പുറത്തുവരുമ്പോൾ താപനില വളരെ ഉയർന്നതാണ് അത് 400 ആകാം ആ ശ്രേണിയിൽ ബിരുദം നേടുകയും തുടർന്ന് അധിക ജോലികൾ ചെയ്യാൻ ആവശ്യമായ താപ ഊർജ്ജം ലഭിക്കുകയും ചെയ്യുന്നു അല്ലെങ്കിൽ ജോലി ചെയ്യാനുള്ള സാധ്യത ഇതിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയും ഈ ചൂടുള്ള വാതകത്തിൽ നിന്ന് ജോലി ചെയ്യാനുള്ള സാധ്യത വേർതിരിച്ചെടുക്കാൻ കഴിയും അതുകൊണ്ട് നമുക്ക് എന്തുചെയ്യാൻ കഴിയും ഞങ്ങൾ അത് ഒരു സ്റ്റീം ടർബൈൻ പവർ പ്ലാന്റിലേക്ക് അയയ്ക്കാൻ പോകുന്നു സ്റ്റീം ടർബൈൻ പവർ പ്ലാന്റിനായി ഈ ഊർജ്ജം നീരാവി രൂപത്തിൽ വേർതിരിച്ചെടുക്കേണ്ടതുണ്ട് അതാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ മിക്ക കേസുകളിലും നമുക്ക് ഈ സൂപ്പർഹീറ്റർ നീരാവി ലഭിക്കുകയും നമ്മുടെ സ്റ്റീം പവർ സൈക്കിൾ പ്രവർത്തിപ്പിക്കുകയും ചെയ്യാം എന്നാൽ ചില സന്ദർഭങ്ങളിൽ എന്താണ് സംഭവിച്ചത് ഈ ക്രമീകരണത്തെ unfired HRSG എന്ന് വിളിക്കുന്നു അതിനർത്ഥം ജ്വലന അറയിൽ എന്ത് ജ്വലനം നടന്നാലും അതിന് ശേഷം ഞങ്ങൾ ചൂടുള്ള വാതകത്തിൽ നിന്ന് ചൂട് വേർതിരിച്ചെടുക്കുന്നു കൂടുതൽ ജ്വലനം നടക്കുന്നില്ല HRSG യിൽ നിന്ന് ചൂട് വാതകം പോയി അന്തരീക്ഷത്തിലേക്ക് പുറത്തുവിടുന്നു അതിനാൽ ഒരാൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ആദ്യത്തെ തരം HRSG ഇതാണ് ഒരാൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന രണ്ടാമത്തെ കാര്യം ജ്വലന അറയിൽ ജ്വലനം പൂർണ്ണമല്ല എന്നതാണ് വരുന്ന ചൂടുള്ള വാതകം അതിൽ കുറച്ച് ഇന്ധനം അനുവദിച്ചേക്കാം അതിനാൽ രണ്ടാം റൌണ്ട് എച്ച്ആർഎസ്ജിയിൽ അധിക ഇന്ധനം ചേർക്കാതെ അല്ലെങ്കിൽ ഗ്യാസ് ടർബൈനിൽ നിന്ന് വാതകം പുറത്തുവന്നതിന് ശേഷം ജ്വലനം സാധ്യമാണ് ഇതിനെ എക്സ്ഹോസ്റ്റ് ഫയർഡ് എന്ന് വിളിക്കുന്നു ഇത് വളരെ സാധാരണമല്ല പക്ഷേ ഇത് ഒരു ഓപ്ഷനാണ് മൂന്നാമത്തേത് മറ്റൊരു ഓപ്ഷനാണ് അത് പല ആപ്ലിക്കേഷനുകളിലും വീണ്ടും ചൂഷണം ചെയ്യപ്പെടുന്നു അത് സപ്ലിമെന്ററി ഫയർ ആണ് എന്താണ് സപ്ലിമെന്ററി ഫയർ ഞാൻ അല്പം വിശദീകരിക്കാം എന്താണ് സപ്ലിമെന്ററി ഫയർ അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്താണ് അതിനാൽ ഒരു HRSG യുടെ ഒരു തിരശ്ചീന ലേഔട്ട് ഇതുപോലെ കാണപ്പെടുന്നു അതിനാൽ ഈ സൈറ്റിൽ നിന്ന് ഗ്യാസ് ടർബൈൻ എക്സിറ്റിൽ നിന്ന് ഞങ്ങൾക്ക് ഗ്യാസ് ലഭിച്ചു അതിനാൽ ഇത് ജിടി എക്സിറ്റിൽ നിന്നാണ് തുടർന്ന് ഇതിലൂടെ കടന്നുപോകുന്നു ചൂട് എക്സ്ചേഞ്ചറുകൾ ഉണ്ട് ഞാൻ അവ വരയ്ക്കുന്നില്ല ഇതാണ് സ്റ്റാക്ക് അതിനാൽ ഇവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് കുറച്ച് ഇന്ധനം കുത്തിവയ്ക്കാം എന്നതാണ് ദ്രവ ഇന്ധനങ്ങൾ വളരെ സാധാരണമായതിനാൽ ഞാൻ പറയുന്നു അതിനാൽ അതിനാലാണ് ഞാൻ ഇന്ധനം കുത്തിവച്ചതെന്ന് പറയുന്നത് എന്നാൽ തത്വത്തിൽ ഏത് തരത്തിലുള്ള ഇന്ധനവും കത്തിക്കാം കുറച്ച് അധിക ഇന്ധനം ബണ്ട് ആണ് അതിനാൽ ചില സമയങ്ങളിൽ അപൂർവ്വമായി സംഭവിക്കുന്നത് കുറച്ച് അധിക വായു എടുക്കുകയും വേണം അപ്പോൾ ഇതിന്റെ ഫലം എന്താണ് ഇത് വാതകത്തിന്റെ താപനില വർദ്ധിപ്പിക്കും ഈ ജ്വലനം കാരണം ഇത് ചൂടുള്ള വാതകത്തിന്റെ അളവ് വർദ്ധിപ്പിക്കും അതിനാൽ അടിത്തട്ടിലുള്ള സൈക്കിളിൽ നിന്ന് കൂടുതൽ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ കഴിയും എന്ന നേട്ടം നമുക്കുണ്ടാകും സ്റ്റീം പവർ സൈക്കിളിന്റെ കൂടുതൽ വ്യതിയാനങ്ങൾ നമുക്കുണ്ടാകും അത് നമ്മുടെ അടിത്തട്ടിലുള്ള സൈക്കിളാണ് നമുക്ക് കൂടുതൽ ഊർജ്ജം ഉത്പാദിപ്പിക്കാൻ കഴിയും ഇനി നമുക്ക് ഗ്യാസ് ടർബൈനിന്റെ എക്സ്ഹോസ്റ്റ് എക്സിറ്റ് പോയിന്റ് പറയട്ടെ ഈ അധിക ഇന്ധനം ഈ അധിക ഇന്ധനത്തിലൂടെ നമുക്ക് 420 430oC താപനില നൽകുന്നു അതിനാൽ ഈ ഇന്ധനം കത്തിച്ചുകൊണ്ട് നീരാവി ചക്രത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കാണുന്നു കാരണം ആവി ചക്രത്തിന്റെ ഉയർന്ന താപനിലയിലേക്ക് പോകാം ഈ പ്രയോഗിച്ച നീരാവിക്ക് ഉയർന്ന അളവിലുള്ള സൂപ്പർഹീറ്റിലേക്ക് പോകാം നമുക്ക് പോകാനും കൂടുതൽ വൈദ്യുതി ഉത്പാദിപ്പിക്കാനും കഴിയും ഇപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം ഈ അധിക ഇന്ധനം കത്തിച്ചുകൊണ്ട് സംയോജിത സൈക്കിൾ കാര്യക്ഷമത വർദ്ധിക്കുന്നില്ല പകരം അത് കുറയുന്നു പക്ഷേ അത് കൂടുതൽ ശക്തി നൽകുന്നു അതായത് എന്തുകൊണ്ടാണ് പല കേസുകളിലും ഈ അധിക ഇന്ധന ഫയറിംഗ് ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് നമ്മളിൽ ഞങ്ങൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ലാത്ത താപവും വൈദ്യുതി ഉൽപാദനവും സംയോജിപ്പിക്കും എന്നാൽ വരാനിരിക്കുന്ന ചില പ്രഭാഷണങ്ങളിൽ ചർച്ച ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അവിടെ ഈ അധിക ഇന്ധന വെടിവയ്പ്പ് പ്രയോജനകരമാണ് അതിനാൽ സൈക്കിൾ ഡിസൈനുകളെ ആശ്രയിച്ച് പ്ലാൻ രൂപകല്പനയും വൈദ്യുതിയുടെ ആവശ്യകതയും മുതലായവയെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഞങ്ങൾക്ക് ഈ അധിക ഫയറിംഗ് നടത്താം ഇത് പ്രവർത്തനത്തിൽ കൂടുതൽ വഴക്കം നൽകുന്നു ഇത് വൈദ്യുതി ഉൽപാദനം വർദ്ധിപ്പിക്കുക മാത്രമല്ല പ്രവർത്തനത്തിന് കൂടുതൽ വഴക്കം നൽകുകയും ചെയ്യുന്നു അതിനാൽ ഞങ്ങൾ ഇവിടെ നിർത്തുമെന്ന് ഞാൻ കരുതുന്നു തുടർന്ന് ഞങ്ങൾ ഈ വിവരണങ്ങളിലേക്ക് പോകും ഞങ്ങളുടെ അടുത്ത ക്ലാസിലെ വിവിധ തരത്തിലുള്ള HRSG